മാഗ്നെറ്റിക് ഫീൽഡിന്റെ ഡൈവേർജെൻസ് കേൾ സ്ഥിര വൈദ്യുതി അഥവാ സമയത്തിനനുസരിച്ച് മാറാത്ത കറന്റ് അതായത് സ്റ്റെഡി കറന്റ് കാരണം ഉണ്ടാകുന്ന മാഗ്നെറ്റിക് ഫീൽഡ് അഥവാ കാന്തിക മണ്ഡലം മാഗ്നെറ്റിക് ഫീൽഡിന്റെ സ്വഭാവം കൂടി വ്യക്തമാക്കുന്ന ഈ ഫോർമുലയെ ബയോട്ട് സാവേർട്ട് നിയമം എന്ന് പറയുന്നു ഇത് കോൺസ്റ്റന്റ് കറന്റിന് മാത്രം പ്രയോഗിക്കാവുന്ന ഫോർമുലയാണ് അതായത് dI dt 0 ആണെങ്കിൽ മാത്രമേ ഈ ഫോർമുല അനുയോജ്യമാവുകയ്യുള്ളൂ ഇലക്ട്രിക്ക് ഫീൽഡിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഏതൊരു വെക്റ്റർ ഫീൽഡ് അഥവാ സദിശ മണ്ഡലവും ഡൈവേർജൻസ് കേൾ ഇവ മുഖേന കണ്ടുപിടിക്കാമെന്ന് അപ്പോൾ മാഗ്നെറ്റിക് ഫീൽഡിനെക്കുറിച്ച് പഠിക്കുന്നതിനും ഈ ഫീൽഡിന്റെ അഥവാ B യുടെ ഡൈവേർജൻസ് അഥവാ B യും കേൾ അഥവാ B യും അറിയേണ്ട ആവശ്യമുണ്ട് ഈ ക്ലാസ്സിൽ നമ്മൾ അതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിനായി ഞാൻ അല്പം വെക്റ്റർ കാൽക്കുലസ് ഉപയോഗിക്കാൻ പോകയാണ് ക്ലാസ്സിനോടനുബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വിശദമാക്കിത്തരാം നിങ്ങളും വെക്റ്റർ കാൽക്കുലസ് കൂടുതലായി പഠിക്കാൻ ശ്രമിക്കണം കാരണം ഇത് പല മേഖലകളിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും നമുക്കറിയാം ഇതിന്റെ ഡൈവേർജൻസ് എടുത്താൽ ഇവിടെ ഡൈവേർജൻസ് r മായി ബന്ധപ്പെടുത്തിയാണ് എടുക്കേണ്ടത് കാരണം നമ്മൾ r ലുള്ള ഫീൽഡ് ആണ് കാണുന്നത് എന്നാൽ ഇന്റഗ്രേഷൻ ചെയ്യേണ്ടത് പ്രൈം ക്വാണ്ടിറ്റി കളുമായി ബന്ധപ്പെടുത്തിയാണ് ഇന്റഗ്രേഷന്റെ ഉള്ളിലേക്കെടുത്ത് ഇക്വേഷൻ നമുക്ക് മാറ്റി എഴുതാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കറിയാം വെക്റ്റർ ഐഡന്റിറ്റി അനുസരിച്ച് അപ്പോൾ dl′ എന്നത് r′ നെ ബന്ധപ്പെടുത്തികൊണ്ടുള്ളതാണ് എന്നാൽ ഡിഫറെൻസിയേഷൻ അതായത് ഡൈവേർജൻസ് r മായി ബന്ധപ്പെടുത്തിയുള്ളതാണ് അപ്പോൾ ഇക്വേഷന്റെ വലതുവശത്തുള്ള ആദ്യത്തെ പദം സീറോ ആകും രണ്ടാമത്തെ പദത്തിൽ അപ്പോൾ രണ്ടാമത്തെ പദമായ കാരണം ഗ്രേഡിയന്റിന്റെ കേൾ എടുത്താൽ സീറോ ആയിരിക്കും അപ്പോൾ മുഴുവൻ പദവും സീറോ ആകുന്നു അതായത് സ്വതന്ത്ര ഏകധ്രുവങ്ങൾ അഥവാ മോണോപോൾസ് ഇല്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഏക കാന്തിക സ്രോതസ്സുകൾ ഉണ്ടാവാൻ ഒരിക്കലും സാധ്യമല്ല എന്ന് നേരത്തെ മറ്റൊരു ക്ലാസ്സിൽ വിശദീകരിച്ചപ്പോൾ തന്നെ മാഗ്നെറ്റിക് ഫീൽഡിന്റെ ഡൈവേർജൻസ് സീറോ ആയിരിക്കുമെന്ന് നമ്മൾ മുൻകൂട്ടി പറഞ്ഞിരുന്നു അപ്പോൾ ബയോട്ട് സാവർട്ട് ഫോർമുല അനുസരിച്ച് നമ്മൾ കണ്ടത് B യുടെ ഡൈവേർജൻസ് സീറോ ആയിരിക്കുമെന്നാണ് ഇത് മറ്റൊരു അർത്ഥത്തിൽ എടുത്താൽ നമുക്ക് പറയാൻ കഴിയും മാഗ്നെറ്റിക് ഫീൽഡ് ലൈനുകൾ ഒരു ബിന്ദുവിൽ നിന്നും തുടങ്ങുകയോ ഒരു ബിന്ദുവിലേക്ക് അവസാനിക്കയോ ചെയ്യുന്നില്ല അതായത് ഇവിടെ സ്വതന്ത്ര സ്രോതസ്സ് അഥവാ സോഴ്സ് അല്ലെങ്കിൽ സ്വതന്ത്ര സിങ്ക് ഉണ്ടാവാൻ സാധ്യമല്ല എന്നർത്ഥം എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്രകാരം വ്യാഖാനിക്കുന്നത് കാരണം നമുക്കറിയാം സ്വതന്ത്ര സ്രോതസ്സുകളിൽ നിന്നും ഫീൽഡ് ലൈനുകൾ പുറത്തേക്ക് ബഹിർഗമിച്ചുകൊണ്ടിരിക്കും B അതിനർത്ഥം ഉപരിതലത്തിലുള്ള ഫ്ലക്സ് സീറോ ആയിരിക്കില്ല അഥവാ ഡൈവേർജൻസ് സീറോ ആയിരിക്കില്ല എന്നർത്ഥം അതായത് സ്വതന്ത്ര സ്രോതസ്സ് ഒരിക്കലും സാധ്യമല്ല എന്നർത്ഥം അടുത്തതായി B കാണാം നമുക്കറിയാം ഇത് കണ്ടുപിടിക്കാനായി നമുക്ക് ചെറിയ ഒരു സൂത്രം പ്രയോഗിക്കാം അതിനായി ഞാനിവിടെ ഒരു വൈദ്യുത വലയം അല്ലെങ്കിൽ വൈദ്യുതി ഒഴുകുന്ന ഒരു വയർ അഥവാ വിശാലമായ ഒരു സോഴ്സ് എടുക്കുകയാണ് ഇതിൽ ഒരു സൂക്ഷ്മ അംശം dl′ സങ്കൽപ്പിക്കുക ഇതിന്റെ ഛേദതല വിസ്തീർണം അഥവാ ക്രോസ്സ് സെക്ഷനൽ ഏരിയ a എന്നിരിക്കട്ടെ അപ്പോൾ എന്നെഴുതാൻ സാധിക്കും ഇവിടെ j എന്നത് യൂണിറ്റ് ഏരിയയിലുള്ള കറന്റ് ആയിരിക്കും അടുത്തതായി ഞാൻ dl′ എന്ന വെക്ടറിനെ j യിലേക്കെടുത്ത് കറന്റ് ഡെൻസിറ്റി j എന്ന വെക്റ്റർ ആക്കിയെടുക്കുന്നു അപ്പോൾ എന്താണ് adl′ ഇത് നമ്മളിവിടെ എടുത്ത ഷെയിഡ് ചെയ്തിരിക്കുന്ന ഈ സൂക്ഷ്മ അംശത്തിന്റെ വോളിയം ആണ് അപ്പോൾ നമുക്കിതിനെ എന്നെഴുതാൻ സാധിക്കും അപ്പോൾ നമുക്ക് എന്ന ഇക്വേഷനെ എന്ന് മാറ്റി എഴുതാം നമുക്കറിയാം j യുടെ ഇന്റഗ്രേഷൻ സീറോ ആയിരിക്കില്ല എന്ന് നമ്മളിപ്പോൾ Idl′ എന്നത് jdV′ എന്നാക്കി മാറ്റിയിരിക്കയാണ് അടുത്തതായി നമുക്ക് കേൾ എടുക്കാം

ഇവിടെയും ഞാൻ എന്നത് ഇന്റഗ്രേഷന്റെ ഉള്ളിലേക്കെടുത്തിരിക്കയാണ് കാരണം കേൾ എടുക്കുന്നത് r മായി ബന്ധപ്പെടുത്തിയും ഇന്റഗ്രേഷൻ ചെയ്യുന്നത് പ്രൈം ക്വാണ്ടിറ്റികളുമായി ബന്ധപ്പെടുത്തിയുമാണ് അടുത്തതായി ഞാനിവിടെ വെക്ടർ ഐഡന്റിറ്റി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്താണെന്ന് അടുത്ത സ്ലൈഡിൽ വ്യക്തമാക്കാം നേരത്തെ ഞാൻ എഴുതിയ വെക്റ്റർ ഐഡന്റിറ്റി അനുസരിച്ച് ഇതിൽ അവസാനത്തെ രണ്ടു പദങ്ങളും നിങ്ങൾക്ക് പരിചിതമാണല്ലോ ഇവിടെ നമുക്ക് ഇവിടെ എന്നാണല്ലോ അപ്പോൾ കാരണം ഇവിടെ ഡിഫറെൻഷ്യൽ എടുക്കേണ്ടത് r മായി ബന്ധപ്പെട്ടും കറന്റ് ഡെൻസിറ്റി j r ′ മായി ബന്ധപ്പെട്ടുമാണ്

എന്നത് നിങ്ങൾ പല പ്രാവശ്യം ചെയ്തതാണല്ലോ r r′|r r′ |3 എന്നത് 4 0 എന്ന ചാർജുകൊണ്ടുള്ള ഇലക്ട്രിക്ക് ഫീൽഡിന് സമമാണെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം അതുകൊണ്ട് ചാർജ് ഡെൻസിറ്റിയുടെ ഡൈവേർജൻസ് ഒരു ഡെൽറ്റ ഫങ്ക്ഷൻ ആണ് അടുത്തതായി കറന്റ് ഡെൻസിറ്റിയുടെ ഡൈവേർജൻസ് എടുക്കാം അപ്പോൾ B നേരത്തെ എഴുതിയതനുസരിച്ച് ആണല്ലോ ഇതിൽ ഇതിലെ അവസാനത്തെ പദം സീറോ ആണെന്ന് നാം കണ്ടു അതുപോലെ ആദ്യത്തെ പദവും സീറോ ആണല്ലോ അപ്പോൾ ബാക്കിയുള്ളത് അപ്പോൾ j r′ എന്നത് കറന്റ് ഡെൻസിറ്റി അതായത് യൂണിറ്റ് ഏരിയയിലെ കറന്റ് ആണ് ഇത് കറന്റിന്റെ അതെ ദിശയിലാണ് ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ ബാക്കിയുള്ളത് ഒന്നാമത്തെ പദം മാത്രമാണ് അതായത് ഇവിടെ r r ′ ൽ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് r r ′ ന്റെ ഏതെങ്കിലും ഫങ്ക്ഷനിൽ ഉദാഹരണമായി 1 r r ′ ൽ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതിന് സമമാണ് അതുമല്ലെങ്കിൽ ′ 1 r r ′ ൽ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതിന് തുല്യമാണ് ഇത് നിങ്ങൾക്ക് മറ്റു ഫങ്ക്ഷനുകളിൽ പ്രയോഗിച്ച് ശരിയാണെന്നു ഉറപ്പുവരുത്താവുന്നതാണ് അടുത്തതായി നേരത്തെ കിട്ടിയ ഫങ്ക്ഷൻ ഈ തിയറി ഉപയോഗിച്ച് മാറ്റി എഴുതി നോക്കാം ഇത് കണ്ടുപിടിക്കുന്നതിനായി നമുക്ക് X Y Z കംപോണന്റുകൾ വേറെവേറെ കണ്ടുപിടിക്കാം ഇവിടെ X കംപോണന്റ് ചെയ്ത് സീറോ ആണെന്ന് കണ്ടുപിടിച്ചാൽ Y Z കംപോണന്റ് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതേയുള്ളൂ X കംപോണന്റ് എടുത്താൽ നമുക്ക് കിട്ടുന്നത് എന്നാണ് ഇത് എത്രയാണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കണം നമുക്കറിയാം അടുത്തതായി ഇതിന്റെ ഇന്റഗ്രൽ എടുക്കാം അപ്പോൾ എന്നാൽ സ്റ്റെഡി കറന്റ് എടുക്കുകയാണെങ്കിൽ ആണ് സാധാരണ ഗതിയിൽ ഇത് ∂∂ t ആയിരിക്കുമെങ്കിലും ഇവിടെ സ്റ്റെഡി കറന്റിന് ഇത് സീറോ ആയിരിക്കും കറന്റ് സമയത്തിനനുസരിച്ച് മാറുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത് സീറോ അല്ലാതിരിക്കുന്നത് പിന്നീടുള്ള ഉദാഹരണങ്ങളിൽ നമുക്ക് ഇത് വ്യക്തമാകും സമയത്തിനനുസരിച്ച് കറന്റ് മാറുന്നുണ്ടെങ്കിൽ ഈ പദം സീറോ ആവില്ലെന്നും ഇത് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഉണ്ടാക്കുന്നെന്നും എന്നാൽ ഇപ്പോൾ നമ്മൾ സ്റ്റെഡി കറന്റിനുള്ള ബയോട്ട് സാവർട്ട് നിയമം മാത്രം ചർച്ച ചെയ്യുന്നതുകൊണ്ട് തല്ക്കാലം ഒന്നാമത്തെ പദം സീറോ എന്ന് എടുക്കാം കറന്റ് ഇവിടെ ലോക്കലൈസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ സിസ്റ്റത്തിൽ നിന്നും ദൂരെയുള്ള സ്ഥലങ്ങളിൽ കറന്റ് സീറോ ആയിരിക്കും ഇക്വേഷന്റെ ഇടതുവശത്തുള്ള പദത്തിലുള്ള ഡൈവേർജൻസ് സർഫേസ് ഇന്റഗ്രൽ ആക്കി മാറ്റാവുന്നതാണ് ഈ സർഫേസ് ഇന്റഗ്രൽ സീറോ ആകും കാരണം വളരെ ദൂരെയുള്ള ഉപരിതലത്തിലുള്ള ബിന്ദുവിൽ j സീറോ ആയിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ ബാക്കി വരുന്നത് അവസാനത്തെ പദം മാത്രമായിരിക്കും ഇടതുവശത്തുള്ള പദം സീറോ ആയതിനാൽ ഈ പദവും സീറോ ആയി മാറുന്നു അപ്പോൾ നമ്മൾ നേരത്ത എഴുതിയ B യുടെ ഇക്വേഷനിലേക്ക് തിരിച്ചു പോയാൽ ഇവിടെ ഒന്നാമത്തെ പദം സീറോ ആകുന്നുണ്ട് അപ്പോൾ ആ പദം നമ്മൾ ഒഴിവാക്കുന്നു അപ്പോൾ അപ്പോൾ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസിലാക്കിയ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയെന്നാൽ മാഗ്നെറ്റിക് ഫീൽഡിന്റെ ഡൈവേർജൻസ് എല്ലായ്പോഴും സീറോ ആയിരിക്കും അതായത് സ്വതന്ത്ര ഏകധ്രുവങ്ങൾ ഒരിക്കലും സാധ്യമല്ല ഈ രണ്ടു ഇക്വേഷനുകളും നമുക്ക് ഇലക്ട്രിക്ക് ഫീൽഡിന്റെ ഇക്വേഷനുകളുമായി താരതമ്യം ചെയ്തു നോക്കാം അവിടെ നമുക്ക് കിട്ടിയത് മാഗ്നെറ്റിക് ഫീൽഡിന്റെ ഇക്വേഷനാകട്ടെ ഇവിടെ പ്രത്യേകം ഓർക്കാനുള്ള ഒരു കാര്യം മാഗ്നെറ്റിക് ഫീൽഡിന്റെ ഈ ഇക്വേഷൻ സ്റ്റെഡി സ്റ്റേറ്റ് കറന്റിന് മാത്രമുള്ളതാണ് എന്നതാണ് കറന്റ് ടൈമിനനുസരിച്ച് മാറുന്നുണ്ടെങ്കിൽ ഇതിനോടുകൂടെ ഒരു പദം കൂടെ അധികമായുണ്ടാകും അപ്പോൾ ഇവിടെ സ്റ്റെഡി കറന്റ് കാരണമുള്ള മാഗ്നെറ്റിക് ഫീൽഡിനെക്കുറിച്ച് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ കാരണം നമ്മൾ ഇപ്പോൾ ചർച്ചചെയ്യുന്നത് മാഗ്നെറ്റോസ്റ്റാറ്റിക്സിനെക്കുറിച്ചാണ്